ഇതുവരെ നാം പഠിച്ചത് നോഡൽ അനാലിസിസ് ആണ് അത് ഒരു സർക്യൂട് ന്റെ ഇക്വേഷൻ എങ്ങനെ ചിട്ടയായി എഴുതാം എന്ന് പ്രതിപാദിക്കുകയാണ് പിന്നെ മാട്രിക്സ് ഇൻവെർഷൻ എന്ന രീതി ഉപയോഗിച്ച് നോഡൽ വോൾടേജ് കണ്ടെത്തുക എന്നതും ഇതിൽ ഉണ്ട് എന്നാൽ ഇതിന്റെ ഒരു പരിമിതി എന്നത് നാം പഠിച്ചു ഇത് ഇൻഡിപെൻഡ് കറന്റ് സോഴ്സ് പിന്നെ റെസിസ്റ്റർ മാത്രം ഉള്ള ഒരു സർക്യൂട് ൽ ആണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക തീർച്ചയായും മറ്റു കംപോണന്റുകൾ ഇതിൽ ഉണ്ടാകാവുന്നതാണ് ഉദാഹരണത്തിന് ഇൻഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് പിന്നെ കോൺട്രോൾഡ് സോഴ്സ് അതിനാൽ ഇനി നാം ചെയ്യാൻ പോകുന്നത് ഇതിൽ എല്ലാം നോഡൽ അനാലിസിസ് ഉപയോഗിക്കുക എന്നതാണ് റെസിസ്റ്ററുകളും പിന്നെ ഇൻഡിപെൻഡ് കറന്റ് സോഴ്സ് കളും മാത്രം ഉള്ള സർക്യൂട് ആണ് ഇതിൽ ഏറ്റവും എളുപ്പം എന്നാൽ മറ്റു സർക്യൂട് ലും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഈ വോൾടേജ് സോഴ്സ് ഉള്ള ഈ സർക്യൂട് നമുക്ക് നോക്കാം ഇത് ഇതിനു മുമ്പ് ഉപയോഗിച്ച സർക്യൂട് ആയി സാമ്യം ഉണ്ട് ഒരു വ്യത്യാസം എന്നത് ഒരു റെസിസ്റ്റർ മാറി ഇവിടെ പകരം വോൾടേജ് സോഴ്സ് വന്നു എന്നതാണ് നോഡൽ അനാലിസിസ് ൽ നാം എന്താണ് ചെയ്തത് നാം ഓരോ നോഡ് ആയി പരിശോധിച്ച് പതിവ് പോലെ നാം റഫറൻസ് നോഡ് എടുക്കുന്നതാണ് പിന്നെ ഈ വോൾടേജ് കൾ എന്നത് V1 V2 പിന്നെ V3 എന്നിവ ആണ് നാം ഇനി ഓരോ നോഡിലും KCL അപ്ലൈ ചെയ്യുന്നു അവിടെ കാണിക്കേണ്ടത് ഓരോ നോഡിൽ നിന്നും പുറത്തേക്കു ഒഴുകുന്ന കറന്റ് എന്നത് അതിൽ പ്രവേശിക്കുന്ന സോഴ്സ് കറന്റ് നു തുല്യമാണ് വോൾടേജ് സോഴ്സ് ഇവിടെ ഉള്ളപ്പോൾ അത് ഒരു പ്രശ്നമാണ് അപ്പോൾ ഈ I1 1 പ്ലസ് I1 2 എന്നത് ഇവിടെ സ്ഥാപിക്കപ്പെട്ട ഈ കറന്റ് I1 ആണ് അപ്പോൾ പ്രശ്നം എന്നത് ഈ I1 എന്ന കറന്റ് എന്നത് എത്രയാണെന്ന് ഈ വോൾടേജ് സോഴ്സ് ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് പറയാനാകില്ല ഇനി എനിക്കു ഒരു റെസിസ്റ്റർ ഉണ്ടെന്നു കരുതുക V1 V2 എന്നിവയാണ് അതിന്റെ രണ്ടറ്റത്തെ വോൾടേജ് അപ്പോൾ ഈ റെസിസ്റ്റർ നു കുറുകെ ഉള്ള വോൾടേജ് എന്നത്V1 V2 ആയിരിക്കും അപ്പോൾ കറന്റ് കണ്ടു പിടിക്കാൻ അത് മാത്രം മതി V1 V2 ബൈ R നേരെ മറിച്ചു V1 പിന്നെ V2 എന്നീ വാല്യൂ ഉള്ള ഒരു വോൾടേജ് സോഴ്സ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഈ വോൾടേജ് സോഴ്സ് ന്റെ വോൾടേജ് എന്നത് V1 മൈനസ് V2 ആയിരിക്കുമല്ലോ അപ്പോൾ ഇവിടെ ഈ കറന്റ് നു ഈ വോൾടേജ് സോഴ്സ് ന്റെ കറന്റ് അല്ലെങ്കിൽ ഈ വോൾടേജ് സോഴ്സ് നു കുറുകെ ഉള്ള വോൾടേജുമായോ ഒരു ബന്ധവുമില്ല പിന്നെ വോൾടേജ് സോഴ്സ് ന്റെ നിർവചനം എന്നത് അത് അതിനു കുറുകെ സ്ഥിരമായ വോൾടേജ് നിലനിർത്തുന്നു എന്നതാണ് കറന്റ് എന്ത് തന്നെ ആയാലും നിങ്ങൾക്കു ഒരു വോൾടേജ് സോഴ്സ് ന്റെ കറന്റ് അതിനു കുറുകെ ഉള്ള വോൾടേജ് ഉപയോഗിച്ച് കണ്ടെത്താനാകില്ല അപ്പോൾ ഈ കറന്റ് എന്നത് പുറമെ ഉള്ള ചില കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ എന്റെ നോഡൽ ഇക്വേഷൻ എഴുതുമ്പോൾ ഞാൻ I1 1 പ്ലസ് I1 2 എന്നത് I1 എന്ന് എഴുതണം ഈ I1 1 എന്നത് V 1 ബൈ R 11 ആണ് എന്നാൽ ഈ I 12 എന്നത് അത് പോലെ എഴുതാനാകില്ല അതിനാൽ ഈ I 12 എന്നത് എനിക്ക് അങ്ങനെ തന്നെ എഴുതേണ്ടി വരുന്നു ഇതേ പ്രശ്നം തന്നെ നോഡ് 2 ലും ഉണ്ട് എന്തെന്നാൽ ഈ വോൾടേജ് സോഴ്സ് എന്നത് നോഡ് 1 ന്റെയും നോഡ് 2 ന്റെയും കുറുകെ ആണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ വീണ്ടും ഈ നോഡ് 2 ൽ I 2 2 പ്ലസ് I 1 3 മൈനസ് I 1 2 എഴുതേണ്ടി വരുന്നു എന്തെന്നാൽ ഈ കറന്റ് എല്ലാം തന്നെ പുറത്തേക്കാണ് എന്ന് ഞാൻ അനുമാനിക്കുന്നു ഒപ്പം അത് 0 ആക്കുന്നു അപ്പോൾ ഞാൻ മൈനസ് I 1 2 പ്ലസ് I 2 2 പ്ലസ് I 1 3 0 എന്നത് 0 ആക്കുന്നു എന്തെന്നാൽ ഈ ഇൻഡിപെൻഡ് കറന്റ് സോഴ്സ് എന്നത് നോഡ് 2 ലേക്കാണ് കറന്റ് കൊടുക്കുന്നത് ഇവിടെയും എനിക്ക് മൈനസ് I 1 2 I 2 2 പിന്നെ I 13 എന്നിവയുടെ വാല്യൂ എത്രയാണ് എന്ന് അറിയില്ല എന്നാൽ പഴയ റെസിസ്റ്റൻസ് വാല്യൂ ആയി ബന്ധപ്പെടുത്താനാകും പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് ഇതിൽ വോൾടേജ് സോഴ്സ് ഉണ്ട് പിന്നെ നോഡൽ അനാലിസിസ് എന്നത് അപ്ലൈ ചെയ്യുക വോൾടേജ് സോഴ്സ് ന്റെ കറന്റ് അല്ലെങ്കിൽ ഈ വോൾടേജ് സോഴ്സ് നു കുറുകെ ഉള്ള വോൾടേജുമായോ ഒരു ബന്ധവുമില്ല അപ്പോൾ എന്താണ് നാം ചെയ്യേണ്ടത് അപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു ഈ വോൾടേജ് സോഴ്സ് എന്നത് നോഡ് 1 ന്റെയും നോഡ് 2 ന്റെയും കുറുകെ ആണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് പിന്നെ ഈ I 12 എന്നത് പോസിറ്റീവ് സൈൻ ആണ് കാണിക്കുന്നത് പിന്നെ ഈ നോഡ് 2 ൽ അത് നെഗറ്റീവ് സൈൻ ആണ് അത് ഏതു ദിശയിലാണു എന്നത് ഇപ്പോൾ നോക്കേണ്ട അത് ഈ ഇടതു വശത്തേക്കാണ് എന്ന് അനുമാനിക്കുക എന്നാൽ ഈ ഇക്വേഷനിൽ അത് ഈ നോഡിലേക്കു ആയതിനാൽ ഇടതു വശത്തു നിന്നും അത് കുറക്കുക ഇനി അടുത്ത നോഡിൽ ഇത് പുറത്തേക്കയതിനാൽ ഇടതു വശത്തു ഇത് കൂട്ടുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ I 12 എന്നത് ഈ ഇക്വേഷനിൽ ഉപയോഗിക്കാനാകില്ല എന്നത് വ്യക്തമാണ് അത് എലിമിനേറ്റ് ചെയ്തതിനു ശേഷം നോട് 1 ന്റെയും 2 ന്റെയും ഇക്വേഷനുകൾ ബന്ധിപ്പിക്കുക നമുക്ക് അത് നോക്കാം വീണ്ടും ഞാൻ ഈ I 12 എന്നത് എടുത്തു മാറ്റുന്നു അതിനാൽ ഈ നോഡ് 1 ൽ ഞാൻ എഴുതുന്നു V 1 G 1 1 പ്ലസ് I 1 2 എന്നത് I 1 ആകുന്നു പിന്നെ നോഡ് 2 ൽ അത് മൈനസ് I 12 പ്ലസ് R 22 യിലൂടെ ഉള്ള കറന്റ് അത് V 2 G 22 ആണ് പിന്നെ R 13 യിലൂടെ ഉള്ള കറന്റ് അത് V 2 G 13 ആണ് പിന്നെ മൈനസ് V 3 G 13 എന്നത് 0 ആണ് ഇനി ഈ രണ്ടു ഇക്വേഷനുകൾ തമ്മിൽ കൂട്ടിയാൽ ഇവിടെ ഈ I 12 എന്നത് ഇല്ലാതാകും അപ്പോൾ നമുക്ക് V 1 G 1 1 പ്ലസ് V 2 G 2 2 പ്ലസ് G 2 3 മൈനസ് V 3 G 1 3 എന്നത് 0 ആയിരിക്കും ഇപ്പോൾ നമുക്ക് നോഡ് 1 ന്റെയും 2 ന്റെയും കമ്പൈൻ ചെയ്ത ഇക്വേഷൻ ലഭിക്കും അപ്പോൾ ഈ വോൾടേജ് സോഴ്സ് ന്റെ കറന്റ് മൂലം ഉണ്ടാകുന്ന പ്രശ്നം ഇവിടില്ല എന്തെന്നാൽ ഈ കറന്റ് എന്നത് നോഡ് 1 ൽ പ്ലസ് സൈൻ പിന്നെ നോഡ് 2 ൽ മൈനസ് സൈൻ ആണ് അത് ക്യാൻസൽ ആകുന്നു ഇനി ഉള്ള പ്രശ്നം എന്നത് നമുക്ക് ഒരു ഇക്വേഷൻ നഷ്ടമായി എനിക്ക് ഇതിനു മുമ്പ് V1 V2 V 3 എന്നീ 3 വേരിയബിൾ ഉണ്ടായിരുന്നപ്പോൾ അതോടൊപ്പം 3 ഇക്വേഷനുകളും ഉണ്ടായിരുന്നു അത് യഥാക്രമം നോഡ് 1 2 3 എന്നിവയിൽ ആയിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ നോട് 1 നോഡ് 2 എന്നിവയിലെ ഇക്വേഷനുകൾ കമ്പൈൻ ചെയ്തു അപ്പോൾ രണ്ടു ഇക്വേഷനുകൾക്കു പകരം ഇപ്പോൾ ഒരു ഇക്വേഷൻ മാത്രമാണുള്ളത് അപ്പോൾ നഷ്ടപ്പെട്ട ഇക്വേഷൻ ഞാൻ ഈ വോൾടേജ് സോഴ്സ് വഴി ആണ് നികത്തേണ്ടത് എന്തെന്നാൽ ഈ നോഡ് 1 ലെയും 2 ലെയും KCL ഞാൻ ഒന്നിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ എനിക്കറിയാം ഈ V 0 എന്നത് V 1 പിന്നെ V 2 എന്നിവയാൽ പരിമിതപ്പെട്ടിരിക്കുന്നു അപ്പോൾ V 0 എന്നത് V 1 മൈനസ് V 2 ആണ് അപ്പോൾ ഈ നഷ്ടപ്പെട്ട ഇക്വേഷന്റെ സ്ഥാനത്തു എനിക്ക് വോൾടേജ് സോഴ്സ് ഇക്വേഷൻ ആണ് ഉള്ളത് അപ്പോൾ എന്റെ മൂന്നു ഇക്വേഷനുകൾ ഏതൊക്കെ ആണ് നോഡ് 1 പിന്നെ നോഡ് 2 എന്നിവയുടെ ഇക്വേഷനുകൾ ഒന്നിപ്പിച്ചതിനാൽ അത് ഇങ്ങനെ ആയി മാറും V 1 G 1 1 പ്ലസ് V 2 G 2 2 പ്ലസ് G 2 3 മൈനസ് V 3 G 1 3 എന്നത് I1 ആണ് അപ്പോൾ ഈ നോഡ് 1 2 എന്നിവയുടെ 3 ഇക്വേഷനുകൾ ഏതൊക്കെയാണ് അതിന്റെ ഇടയിൽ ആണല്ലോ ഈ വോൾടേജ് സോഴ്സ് ഉള്ളത് അത് V 1 G 1 1 പ്ലസ് V 2 G 2 2 പ്ലസ് G 2 3 മൈനസ് V 3 G 1 3 എന്നത് I 1 ആണ് നോഡ് 3 യിൽ പഴയ അതെ ഇക്വേഷൻ തന്നെ ആണ് അത് V 3 G 2 3 പ്ലസ് G 3 3 മൈനസ് V 2 G 2 3 എന്നത് I 3 ആണ് അവസാനം വോൾടേജ് സോഴ്സ് ന്റെ ഇക്വേഷൻ അത് V 1 മൈനസ് V 2 എന്നത് V0 അപ്പോഴും എനിക്ക് 3 വേരിയബിൾ പിന്നെ 3 ഇക്വേഷൻ ഉണ്ട് അവ V 1 V 2 പിന്നെ V 3 എന്നിങ്ങനെ ആണ് അത് സോൾവ് ചെയ്യാം